ഹായ് എവെരിവൺ ഞാൻ ക്യോട്ടോ യൂണിവേഴ്സിറ്റിയിലെ ഡിസാസ്റ്റർ പ്രിവൻഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ശുഭജ്യോതി സമദ്ദർ ആണ് ഡിസാസ്റ്റർ റിക്കവറി ആൻഡ് ബിൽഡ് ബാക് ബെറ്റർ ലെക്ചർ സീരീസിലേക്ക് സ്വാഗതം ഈ പ്രഭാഷണം കോഗ്നിറ്റീവ് ഹ്യൂറിസ്റ്റിക് വീക്ഷണകോണിൽ നിന്നുമുള്ള ദുരന്ത നിവാരണത്തെക്കുറിച്ച് സംസാരിക്കും ദുരന്ത നിവാരണത്തിൽ അവ എന്ത് സാംസ്കാരിക സിദ്ധാന്തവും സാമൂഹിക ഘടകങ്ങളും വഹിക്കുന്നു എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാൽ ദുരന്തത്തിനെതിരായി തയ്യാറെടുക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിങ്ങൾ ആശയവിനിമയം നടത്തുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ അവരുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് ഈ പ്രഭാഷണത്തിന്റെ ശ്രദ്ധാകേന്ദ്രം ഏത് തരത്തിലുള്ള വിജ്ഞാനവും ഹ്യൂറിസ്റ്റിക് വീക്ഷണവുമാണ് അതിനാൽ വ്യക്തി ദുരന്തത്തെ മാത്രമല്ല അഭിമുഖീകരിക്കുന്നതെന്നും യഥാർത്ഥ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും വ്യത്യസ്ത തരത്തിലുള്ള അപകടസാധ്യതകളുണ്ട് ഡിസാസ്റ്റർ റിസ്ക് അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ റിസ്ക് അല്ലെങ്കിൽ എക്കോളോജിക്കൽ റിസ്ക് എന്നിവ ആ അപകടസാധ്യതയുടെ ഒരു ഭാഗം മാത്രമാണെന്നും ഞങ്ങൾ ചർച്ച ചെയ്തു ജീവിതം അപകടസാധ്യത നിറഞ്ഞതാണ് ദുരന്തം ഒറ്റപ്പെട്ട ഒന്നല്ല ശരി ഞങ്ങൾക്ക് ഹെൽത്ത് റിസ്ക് ഉണ്ട് ഞങ്ങൾക്ക് അക്കാദമിക് റിസ്ക് ഉണ്ട് ഞങ്ങൾക്ക് ജോബ് റിസ്ക് ഉണ്ട് അതിനാൽ ഏതാണ് ഞാൻ മുൻഗണന നൽകേണ്ടത് ഏതാണ് ഞാൻ എടുക്കേണ്ടത് ഏതാണ് ഞാൻ അവഗണിക്കേണ്ടത് കാരണം ഈ അപകടസാധ്യത ഗൌരവമായി കാണാനും പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും പലരും എന്നെ ഉപദേശിക്കുന്നുണ്ട് അതിനാൽ ഈ പ്രഭാഷണത്തിൽ സാംസ്കാരിക വീക്ഷണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഞങ്ങൾ ഇതിനകം നടത്തിയിട്ടുണ്ട് ഞങ്ങൾ ഹ്യൂറിസ്റ്റിക് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് വീക്ഷണകോണിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അതുകൊണ്ട് നിങ്ങൾ സാംസ്കാരിക പക്ഷപാതപരമായി പെരുമാറുന്നതിൽ കുഴപ്പമില്ല എന്നാണ് അവർ പറയുന്നത് നിങ്ങൾ സാംസ്കാരികമായി സ്വാധീനിക്കപ്പെടുന്നു പക്ഷേ ദിവസാവസാനം നിങ്ങൾ സ്വയം തീരുമാനമെടുക്കണം അത് നിങ്ങളാണ് ഉത്തരവാദി എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ തീരുമാനിക്കും മറ്റാർക്കും ഒന്നും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ അവർക്ക് നിങ്ങളെ നിർബന്ധിക്കാൻ കഴിയും അവർക്ക് നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയും അവർക്ക് നിങ്ങളെ സമ്മർദ്ദത്തിലാക്കാം പക്ഷേ തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ് മനുഷ്യ മസ്തിഷ്കത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് അവർ ഏത് ബൌദ്ധിക യുക്തിസഹമായ പ്രക്രിയയിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന് നമ്മൾ പറയാൻ ശ്രമിക്കുമ്പോൾ അറിയേണ്ടത് പ്രധാനമാണ് ദുരന്തത്തിനെതിരായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു തീർച്ചയായും സംസ്കാരം ഒരു പ്രധാന ഭാഗമാണ് എന്നാൽ നമ്മളെക്കൂടാതെ എനിക്കും ഒരു വ്യക്തിയുടെ മനസ്സുണ്ട് ഞാൻ എന്റെ അയൽക്കാരന്റെ ഭാഗമാണ് ഞാൻ എന്റെ സഹപ്രവർത്തകന്റെ ഭാഗമാണ് സഹപ്രവർത്തകരുടെ ഭാഗമാണ് ഞാൻ എന്റെ സുഹൃത്തുക്കളുടെ ഭാഗമാണ് ഞാൻ അവരാൽ സ്വാധീനിക്കപ്പെടുന്നു പക്ഷേ എന്റെ പ്രവൃത്തികൾ എന്റെ മനോഭാവം എന്റേതാണ് ഞാൻ ചെയ്യുന്നതിനെ മറ്റുള്ളവരും സ്വാധീനിക്കുന്നു തീർച്ചയായും സംസ്കാരം പ്രധാനമാണ് എന്നാൽ ഈ വ്യക്തി ജ്ഞാനിയോ ദരിദ്രനോ ആണ് അവൻ ജ്ഞാനിയാണെന്ന് ചിലർ കരുതുന്നു അവൻ ദരിദ്രനാണെന്ന് ചിലർ കരുതുന്നു അതിനാൽ സാംസ്കാരിക വ്യത്യാസങ്ങൾ മാത്രമല്ല വ്യക്തിപരമായ വ്യത്യാസങ്ങൾ കൂടിയാണ് അത് ഒരു വസ്തുവാണെന്ന് ആളുകൾ എങ്ങനെ കരുതുന്നു എന്നത് ഒരു തരം സംസ്കാരം മാത്രമല്ല അവർക്കുള്ള ഒരു തരം സാമൂഹിക വ്യവസ്ഥ മാത്രമല്ല അവർ ആളുകളെ പ്രത്യേകമായി ചിന്തിക്കാൻ സഹായിക്കുന്നു മറ്റ് പല കാരണങ്ങളാൽ വ്യക്തികൾക്ക് അവരുടെ സ്വന്തം മനസ്സുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും എല്ലാ സമയവും കണ്ണാടിയിൽ നോക്കുന്നു ഞാൻ എങ്ങനെ നല്ലവനാണെന്ന് അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാൽ നമ്മൾ ചെയ്യുന്നത് ശരിയോ തെറ്റോ സാമൂഹികമായി അംഗീകരിക്കപ്പെട്ടതോ അല്ലാത്തതോ വ്യക്തിപരമായി അംഗീകരിക്കപ്പെട്ടതോ അല്ലാത്തതോ ആകാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു തരത്തിലുള്ള കണ്ണാടി നമുക്കുണ്ട് അതിനാൽ നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ച് നമുക്ക് സ്വന്തം വിധിയുണ്ട് ആളുകൾ അടിസ്ഥാനപരമായി സാംസ്കാരിക പക്ഷപാതമുള്ളവരാണെന്ന് ഞങ്ങൾ ഇതിനകം ചർച്ച ചെയ്തു എന്നാൽ ആളുകൾക്ക് അവരുടേതായ മനസ്സുമുണ്ട് അതിനാൽ അപകടസാധ്യതയ്ക്കുള്ള തയ്യാറെടുപ്പിന്റെ ദുരന്ത തയ്യാറെടുപ്പ് പ്രോത്സാഹിപ്പിക്കുന്നതിന് ഞങ്ങൾ പൊതുവെ എന്താണ് ചെയ്യുന്നത് ഈ റോഡ് അപകടം ശരിയോ മറ്റോ ഇത്തരത്തിലുള്ള പരസ്യം ഉള്ളവരോട് ഞങ്ങൾ പൊതുവെ ചോദിക്കാറുണ്ട് ശരി നിങ്ങൾക്ക് യാത്ര ചെയ്യാം നിങ്ങൾ ബൈക്ക് ഓടിക്കുകയായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ കാറിൽ ഓടിക്കുകയായിരുന്നു നിങ്ങൾ അശ്രദ്ധമായി വാഹനമോടിച്ചാൽ ഇതാണ് അനന്തരഫലമെന്ന് നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഈ പോസ്റ്ററുകൾ റോഡുകളിൽ കാണാം ഇതാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക ഈ പോസ്റ്ററുകളും ചിത്രങ്ങളും വളരെ സാധാരണമാണ് ഞങ്ങൾ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ റിസ്ക് അവർനെസ് വർധിപ്പിക്കുന്നതിനായി റോഡ് സുരക്ഷയ്ക്കായി ഞങ്ങൾ പലപ്പോഴും ഈ ചിത്രം ശരിയായി കാണിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ റോഡിൽ പോകുമ്പോഴെല്ലാം ഇത് കാണാം ഹാപ്പിനെസ്സ് ഈസ് എ ജേർണി നോട്ട് എ ഡെസ്റ്റിനേഷൻ happiness is a journey not a destination എന്ന വളരെ നല്ല പോസ്റ്റർ ആണ് അതിനാൽ വീക്ക്എൻഡ് സുരക്ഷിതമായ ഡ്രൈവ് ജീവനോടെ തുടരുക അതിജീവിക്കാൻ ഡ്രൈവ് ചെയ്യുക അപകടമുണ്ടായാൽ റോഡ് സുരക്ഷയെ സംരക്ഷിക്കാൻ ഇത് വളരെ സാധാരണമായ പോസ്റ്ററാണ് പുകവലിക്കരുതെന്ന് ആളുകളോട് ആവശ്യപ്പെടുന്നതിനായി നമുക്ക് ആരോഗ്യപരമായ അപകടസാധ്യതകൾ പരിശോധിക്കാം ഇത് വളരെ കൃത്യമായ ചിത്രമാണ് നല്ല പോസ്റ്റർ അതുകൊണ്ട് പുകവലിക്കരുത് എന്തുകൊണ്ട് പുകവലിക്കരുത് എന്നതിന് ഈ ചിത്രം പ്രേക്ഷകർക്ക് ആയിരം വാക്കുകൾ നൽകുന്നു കൂടാതെ സിഗരറ്റ് മാത്രമല്ല നിങ്ങൾ സ്വയം കത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ പുകവലിക്കരുത് എന്നതിന് ഇത് വളരെ നല്ല ഉദാഹരണമാണ് അതിനാൽ പുകവലിക്കരുത് പൊണ്ണത്തടി ആധുനിക സമൂഹത്തിൽ വളരെ സാധാരണമായ ഒരു പ്രശ്നമാണ് ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളിലും പ്രത്യേകിച്ച് യുഎസിൽ അതിനാൽ പൊണ്ണത്തടി മറ്റൊരു തരത്തിലുള്ള ആരോഗ്യ അപകടമാണ് നിങ്ങൾ ജങ്ക് ഫുഡ് കഴിക്കാത്തവരാണ് നിങ്ങൾ ജങ്ക് ഫുഡ് കഴിക്കുന്ന ജങ്ക് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഇതാണ് അനന്തരഫലം നിങ്ങൾക്ക് ഹൃദയാഘാതം വരും ഇപ്പോൾ ഈ പരസ്യങ്ങൾ നോക്കുമ്പോൾ ഈ സന്ദേശങ്ങൾ അതിന്റെ കാതൽ എന്താണ് നിങ്ങൾക്ക് ഏത് ആശയവും ലഭിക്കും എല്ലാവരും നോക്കൂ ഈ പോസ്റ്ററുകളെല്ലാം നോക്കൂ അവരുടെ ശ്രദ്ധ ഒരു കാര്യം മാത്രമാണ് അതായത് അവർ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഭയം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ തെറ്റായ പെരുമാറ്റം തടയാൻ അവർ ആഗ്രഹിക്കുന്നു നിങ്ങൾ വെള്ളപ്പൊക്കത്തിനെതിരെ തയ്യാറായില്ലെങ്കിൽ നിങ്ങളുടെ വീട് വെള്ളത്തിനടിയിലാകും നിങ്ങൾ ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന കെട്ടിടം നിർമ്മിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കെട്ടിടം തകരും നിങ്ങൾ മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്യും അതിനാൽ ഭയം നിങ്ങളുടെ ഭയം വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ ഭയം വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം അതിനർത്ഥം അവർക്ക് നിങ്ങളുടെ റിസ്ക് പെർസെപ്ഷൻ വർദ്ധിപ്പിക്കാൻ കഴിയുമെങ്കിൽ പെട്ടെന്ന് ഡ്രൈവിംഗ് നടത്തരുത് നിങ്ങളുടെ വീട് പണിയാൻ പാടില്ല വെള്ളപ്പൊക്ക പ്രതിരോധ നടപടികളില്ലാതെ അതിനാൽ അപകടമുണ്ടാക്കുന്ന അനാവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യില്ല അതിനാൽ ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഭയം വർദ്ധിപ്പിക്കുന്നതിലാണ് എന്നാൽ ഇപ്പോൾ അവർ വാദിക്കുന്ന കോഗ്നിറ്റീവ് ഹ്യൂറിസ്റ്റിക് സമീപനങ്ങൾ ശരിയാണ് ഞാൻ എന്തിനാണ് പുകവലിക്കുന്നത് എന്നത് വ്യത്യസ്തമായ കാരണങ്ങളാകാം അത് എന്റെ ഒരുതരം സുഖമാണ് എന്റെ ശരീരത്തിന് നിക്കോട്ടിൻ ആവശ്യമാണ് അല്ലെങ്കിൽ ആരെങ്കിലും എന്നോട് പറഞ്ഞേക്കാം ഞാൻ പുകവലിക്കുമ്പോൾ ഞാൻ സുന്ദരനും സുന്ദരനും മിടുക്കനും ബുദ്ധിമാനും ആണെന്ന് ഞാൻ പുകവലിക്കുമ്പോൾ ഞാൻ കൂടുതൽ ഫാഷനായി കാണപ്പെടുന്നു ഞാൻ പുകവലിക്കുമ്പോൾ ആളുകൾ എന്നെ നോക്കുന്നു അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങളും ഉണ്ടാകാം ഞാൻ എന്തിനാണ് പുകവലിക്കുന്നത് എന്നത് ഒരു കാരണം കൊണ്ട് മാത്രമല്ല അതിനാൽ ഭയം എനിക്ക് കാര്യമായ കാരണം നൽകില്ല അതുകൊണ്ട് എനിക്കറിയാം എനിക്ക് തടിയുണ്ട് എനിക്ക് പൊണ്ണത്തടി പ്രശ്നമുണ്ട് എന്റെ വീട് വെള്ളപ്പൊക്ക സാധ്യതയുള്ള ഒരു പ്രത്യേക പ്രദേശത്താണ് നിർമ്മിച്ചതെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ എനിക്ക് ജലക്ഷാമം ഉള്ളതിനാൽ ഞാൻ മഴവെള്ള സംഭരണി സ്ഥാപിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം എന്നിട്ടും ഞാൻ ചെയ്തു അതു ചെയ്യരുതു പൊണ്ണത്തടിയുടെ കാര്യത്തിൽ ഞാൻ തടിയാണെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങൾ എന്നോട് പറയുന്നില്ല നിങ്ങൾ എന്റെ ഭയം വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഞാൻ പുകവലിച്ചാൽ ഞാൻ അപകടത്തിലാകുമെന്ന ഭയം നിങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് എന്നാൽ പലതവണ ഡയറ്റ് കണ്ട്രോൾ ചെയ്തിട്ടും ഫലമുണ്ടായില്ലെന്ന് പറയൂ ഞാൻ തടിച്ചവനാണെന്ന് എനിക്കറിയാം പക്ഷേ അത് എങ്ങനെ നിയന്ത്രിക്കാം സുനാമി വന്നാൽ നിങ്ങൾ ആളുകളുടെ ഭയം വർധിപ്പിക്കുന്നു ഒരു ദിവസം സുനാമി വരുമെന്ന് അവർ വിചാരിക്കും ഇത് ഒരു സ്വാഭാവിക പ്രവൃത്തിയാണ് പ്രകൃതി പ്രതിഭാസങ്ങളെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയില്ല അത് വളരെ വലുതാണ് എനിക്ക് വളരെയധികം ഭയമുണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേയൊരു കാര്യം എനിക്ക് കീഴടങ്ങാൻ കഴിയും അത് ആത്മഹത്യ ചെയ്യുന്നതുപോലെയാണ് ഞാൻ ഒരു മാരകവാദിയാണ് ഞാൻ ഒരു നടപടിയും എടുക്കുന്നില്ല ശരി അതിനാൽ ഈ ഭീമാകാരമായ അതിന്റെ ദൈവിക പ്രവൃത്തി ഭീമാകാരമായ വിപത്ത് കീഴടങ്ങുകയല്ലാതെ എനിക്ക് മാർഗമില്ല അതിനാൽ ഭയം വർദ്ധിച്ചുവരുന്ന ഭയം ദുരന്തസജ്ജീകരണത്തെ ശരിയായി പ്രോത്സാഹിപ്പിക്കുന്നതിന് അധികം സഹായിക്കില്ല ഭയം വർധിച്ചാൽ ആളുകൾ മാരകമായി മാറും എന്നാണ് ഇതിനർത്ഥം എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു അപകടസാധ്യത ഉണ്ടെന്ന് എനിക്കറിയാം എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും അവർക്ക് എന്തുചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ ആളുകളോട് പറയണം അവർ അപകടസാധ്യതയുള്ളവരാണെന്ന് മാത്രമല്ല അവർക്ക് എങ്ങനെ അപകടസാധ്യത കുറയ്ക്കാം എന്നത് ഒരു പ്രധാന സന്ദേശം ആസൂത്രകർക്കും പ്രാക്ടീഷണർമാർക്കും പ്രാദേശിക സർക്കാരുകൾക്കും ആയിരിക്കണം അതിനാൽ ഈ ഓപ്ഷൻ പരീക്ഷിച്ചുനോക്കൂ എന്ന് ഞങ്ങൾ ലളിതമായി പറഞ്ഞാൽ അമിതവണ്ണ പ്രശ്നമുള്ള ഒരു വ്യക്തിയോട് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ പഴങ്ങളും പച്ചക്കറികളും കഴിക്കാം നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവും നടക്കാനും ഓടാനും കഴിയും അത് നിങ്ങളെ ഗണ്യമായി സഹായിക്കും നിങ്ങളുടെ തടി കുറയ്ക്കുക നിങ്ങൾക്ക് പൊണ്ണത്തടി പ്രശ്നം ഉണ്ട് നാം അവന്റെ അല്ലെങ്കിൽ അവളുടെ ഭയം വർധിപ്പിക്കുകയല്ലാതെ അത് ചെയ്താൽ അവൻ അല്ലെങ്കിൽ അവൾ വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെടും അതുപോലെ ഭൂകമ്പം ഉണ്ടായാൽ ഒരിക്കൽ ഭൂകമ്പം ഉണ്ടായാൽ ഫർണിച്ചർ മേശയ്ക്കുള്ളിൽ കയറി സ്വയം പരിരക്ഷിക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തല സംരക്ഷിക്കാം സുനാമി ഉണ്ടായാൽ സുനാമി തിരമാലകൾ വരാൻ കഴിയാത്ത മലയോര പ്രദേശത്തെ ഉയർന്ന സ്ഥലത്തേക്ക് ഉടൻ പോകുക അപ്പോൾ എനിക്ക് പുകവലി നിർത്തണം പുകവലി നിർത്താൻ ശ്രമിക്കണം പക്ഷേ എനിക്ക് പലതവണ തോന്നി പക്ഷേ നിങ്ങൾ പറഞ്ഞു എനിക്ക് ഒരു പാച്ച് ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ കൈയിൽ വെച്ചാൽ അത് പുകവലിക്കാനുള്ള ത്രസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ നിങ്ങളെ സഹായിക്കും പുകവലി നിർത്താൻ എന്നെ ഗണ്യമായി സഹായിക്കും പുകവലിയോടുള്ള ആർത്തിയല്ല എന്തിനെക്കുറിച്ചോ ഉള്ള എന്റെ ഭയം എന്നെ സഹായിക്കുമെന്ന് മാത്രമല്ല എനിക്ക് എന്തുചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ എന്നെ അറിയിച്ചാൽ അത് പ്രധാനമാണ് അതിനാൽ ഞാൻ നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകുന്നു അതിനാൽ ഇവിടെ ഞാൻ ആരോടെങ്കിലും വെള്ളപ്പൊക്ക ഒഴിപ്പിക്കലുകൾ ഒഴിപ്പിക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ആ സ്ഥലം എത്രത്തോളം അപകടസാധ്യതയുള്ളതാണെന്നും ഒഴിപ്പിക്കൽ ഫലപ്രദമാണോ അല്ലയോ എന്നറിയാത്തതിനാൽ ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ബംഗ്ലാദേശിലെ ഒരു ചെറിയ ഉദാഹരണം നോക്കാം ഭൂഗർഭജലത്തിലെ ആർസെനിക് ആർസെനിക് മലിനീകരണത്തിനെതിരെ ജനങ്ങൾ പോരാടുകയാണ് അതിനാൽ അവർക്ക് കുടിക്കാൻ ഉപരിതല ജലം ഉണ്ടായിരുന്നു എന്നാൽ ഉപരിതല ജലം രോഗകാരികളായ ജലജന്യ രോഗങ്ങളാൽ മലിനമായിരിക്കുന്നു നിങ്ങൾ ഉപരിതല ജലം കഴിച്ചാൽ നിങ്ങൾക്ക് വയറിളക്കവും വയറിളക്കവും ഉണ്ടാകാം അങ്ങനെ 1980 കളിൽ അവർ ബംഗ്ലാദേശിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഹാൻഡ് പമ്പുകൾ സ്ഥാപിക്കാൻ തുടങ്ങി ഒരു പതിറ്റാണ്ടിനുശേഷം ഈ ഹാൻഡ് പമ്പുകളിൽ ആർസെനിക് മലിനമായതായി അവർ കണ്ടെത്തി എന്തായാലും ബംഗ്ലാദേശിന്റെ പല ഭാഗങ്ങളിലും അടിസ്ഥാനപരമായി തെക്കൻ ഭാഗത്തെ തീരപ്രദേശങ്ങളാണ് അവ മലിനമായിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ 1 2 ദശലക്ഷം ആളുകൾ ആർസെനിക്കോസിസിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബംഗ്ലാദേശിൽ 30 മുതൽ 40 ദശലക്ഷം ആളുകൾ വരെ അപകടത്തിലാണ് അതിനാൽ ആർസനിക് ക്യാൻസറിനും മറ്റ് പല ആരോഗ്യപ്രശ്നങ്ങൾക്കും കാരണമാകും മഴവെള്ള സംഭരണം അത്ര ചെലവേറിയതല്ലെന്ന് ആരോ പറയുന്ന ലളിതമായ പരിഹാരമാണ് ഇപ്പോൾ ഇത് കൊണ്ട് ചെയ്യേണ്ടത് എന്നാൽ മഴക്കാലത്ത് മേൽക്കൂരയിലെ വെള്ളം നിങ്ങൾക്ക് സംരക്ഷിക്കാം വരണ്ട സീസണിൽ നിങ്ങൾക്ക് ഇത് സംരക്ഷിക്കാം നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം ഈ സാങ്കേതിക കാര്യത്തിലേക്ക് നമുക്ക് പിന്നീട് പോകാം എന്നാൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഇതൊരു പ്രതീകാത്മക ദുരന്തമോ പ്രതിരോധ സംവിധാനമോ പരിസ്ഥിതി അപകടസാധ്യത തടയുന്ന സംവിധാനമോ ആണെന്ന് പരിഗണിക്കുക ഇപ്പോൾ ഇത് ബംഗ്ലാദേശാണ് അതിനാൽ ഞാൻ പറയുന്നത് പോലെ ഒരാൾ മാത്രം ചെയ്താൽ അത് പ്രവർത്തിക്കില്ല നമ്മൾ ചെയ്യേണ്ടത് ഈ സാങ്കേതികവിദ്യയെ ഒന്നിനുപുറകെ ഒന്നായി പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ കൂടുതൽ കൂടുതൽ ആളുകൾ ഈ ചെറിയ ടാങ്ക് സ്വന്തം വീട്ടിൽ സ്ഥാപിക്കണം ഇത് ഒരു ഗാർഹിക ടാങ്കാണ് അതുകൊണ്ട് എല്ലാ വീടുകളിലും ഇത് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇത് ശരിയായി ചെയ്യാൻ കഴിയൂ അതിനാൽ ദശലക്ഷക്കണക്കിന് ആളുകളെ ഈ മഴവെള്ള സംഭരണ ടാങ്ക് സ്ഥാപിക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് ബംഗ്ലാദേശിലെ കുടിവെള്ള അപകടസാധ്യത ഗണ്യമായി കുറയ്ക്കും അതിനാൽ ഒരു ആസൂത്രകൻ എന്ന നിലയിൽ ഇത് ഞങ്ങളുടെ വെല്ലുവിളിയാണ് ഇപ്പോൾ അവർ അത് എങ്ങനെ ചെയ്യുന്നു കോഗ്നിറ്റീവ് ഹ്യൂറിസ്റ്റിക് വീക്ഷണകോണിൽ നിന്നുള്ള ചിന്ത ഇതാ ഈ മഴവെള്ള സംഭരണ ടാങ്ക് സ്ഥാപിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ട നാല് ആളുകളുണ്ടെന്ന് സങ്കൽപ്പിക്കാം അത് വളരെ ലളിതമാണ് നാല് പേർ അവർ ബംഗ്ലാദേശ് തീരപ്രദേശത്തുള്ള ബംഗ്ലാദേശ് പൌരന്മാരാണ് അവർ ഈ ചെറിയ ഗാർഹിക ടാങ്ക് സ്ഥാപിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അവരുടെ മനസ്സിൽ ആദ്യം വരുന്ന ചോദ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അവർ ആദ്യം എന്താണ് ചിന്തിക്കുക എന്തെങ്കിലും ഐഡിയ നിങ്ങളുടെ വീട്ടിൽ വെള്ളപ്പൊക്ക സംരക്ഷണ നിർമ്മാണ സാമഗ്രികളോ നിങ്ങളുടെ വീട്ടിൽ ഭൂകമ്പ സംരക്ഷണ നിർമ്മാണ സാമഗ്രികളോ ഉപയോഗിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ അത് ചെയ്യുമോ നമ്മൾ അത് ചെയ്യുമോ ഇല്ലയോ എന്ന് ഒരു നിമിഷം ചിന്തിക്കുക ഈ ടാങ്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ ഞങ്ങൾ അവരോട് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ ആദ്യം വരുന്ന ചോദ്യം എന്താണ് എന്ന് അവർ ചിന്തിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ വെള്ളം എങ്ങനെയുണ്ടെന്നാണ് അവരുടെ മനസ്സിൽ ആദ്യം ഉയരുന്ന ചോദ്യം ഞാൻ കുടിക്കുന്ന വെള്ളം അപകടകരമാണോ അത് ശരിക്കും അപകടകരമാണോ അതുപോലെ ഞാൻ നിങ്ങളോട് ഒരു വെള്ളപ്പൊക്ക ഇൻഷുറൻസ് എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട് ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന തരത്തിൽ നിർമ്മിക്കാനോ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചിന്തിക്കുക ഞാൻ ഭൂകമ്പം സംഭവിക്കുന്ന സ്ഥലത്താണോ അത് ശരിക്കും ഭൂകമ്പത്തിന് സാധ്യതയുള്ളതാണോ എന്ന് അതുകൊണ്ട് ആദ്യ വ്യക്തി ചിന്തിക്കും ഞാൻ അപകടത്തിലാണോ എന്റെ വെള്ളത്തിന്റെ ഗുണനിലവാരം നല്ലതാണോ ചീത്തയാണോ എന്ന് അതിനാൽ ആദ്യത്തെ വ്യക്തി എന്റെ യഥാർത്ഥ ജലം ശരിക്കും മോശമാണെന്ന് അദ്ദേഹം കരുതിയേക്കാം ഇപ്പോൾ എന്റെ കുടിവെള്ള വിതരണം നല്ലതല്ല അതിനാൽ എനിക്ക് ഈ ടാങ്ക് ശരിക്കും ആവശ്യമാണ് അതിനാൽ അവൻ മുന്നോട്ട് പോകും തുടക്കം മുതൽ ഇവിടെ വരെ ഒരു നീണ്ട യാത്രയാണ് നിങ്ങളുടെ തലച്ചോറിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നത് ടാങ്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത് നേരായ ഫോളോ അപ്പ് അല്ല ഞാൻ അത് ചെയ്യുന്നു ഇത് ശരിക്കും ഒരു നീണ്ട യാത്രയാണ് അതിനാൽ രണ്ടാമത്തെ വ്യക്തി എന്താണ് ചിന്തിക്കുന്നത് ശരി എന്റെ വെള്ളം മോശമായതിനാൽ ഞാനും മഴവെള്ള സംഭരണി തിരഞ്ഞെടുക്കണമെന്ന് അവൻ ചിന്തിച്ചേക്കാം മൂന്നാമതൊരാൾ അയാൾ ചിന്തിച്ചേക്കാം ശരി എന്റെ വെള്ളം നല്ലതാണ് യഥാർത്ഥത്തിൽ എനിക്ക് ടാങ്ക് ആവശ്യമില്ല അത് ശരിയാണ് നാലാമത്തെ വ്യക്തി അവൻ ചിന്തിച്ചേക്കാം അത് ശരിയാണ് എന്റെ വെള്ളത്തിന്റെ ഗുണനിലവാരവും മോശമായതിനാൽ അവൻ മുന്നോട്ട് വന്നേക്കാം ഈ ഘട്ടം അതനുസരിച്ച് നമുക്ക് ഒരുതരം റിസ്ക് അപ്രൈസൽ എന്ന് വിളിക്കാം ഈ അപകടസാധ്യത എത്രത്തോളം സംഭവിക്കും അത് എങ്ങനെ സംഭവിക്കും എന്നതിന്റെ തീവ്രതയും ദുർബലതയും ചോദ്യം ശരിയാണ് അതിനാൽ എനിക്ക് അപകടസാധ്യതയെക്കുറിച്ച് ഒരു തരം വിലയിരുത്തൽ ഉണ്ട് ഞാൻ എന്റെ സ്വന്തം റിസ്ക് വിലയിരുത്തുകയാണ് അതിനാൽ റിസ്ക് അപ്രൈസൽ എന്ന നിലയിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ആദ്യത്തെ ചോദ്യങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ ഉയർന്നു ഇപ്പോഴിതാ രണ്ടാമത്തേത് ഏതാണ് രണ്ടാമത്തെ ചോദ്യങ്ങൾ അവന്റെ മനസ്സിൽ വരുന്നത് ഏത് ആശയവും ശരി എനിക്ക് നിങ്ങളെ ഇപ്പോൾ കാണാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും ഞാൻ നിങ്ങൾക്ക് കുറച്ച് സമയം നൽകുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനാകും നിങ്ങളെ ബ്രെയിൻ സ്റ്റോമിംഗിനും ആക്ഷൻ സ്റ്റോമിംഗിനും സഹായിക്കാനാകും അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന കാര്യം പലർക്കും ചെലവിനെക്കുറിച്ച് ചിന്തിക്കുക മാത്രമല്ല അത് ശരിക്കും ഫലപ്രദമാണോ ഞാൻ അപകടത്തിലാണെന്ന് നിങ്ങൾ എന്നോട് സംസാരിക്കുകയും ഈ മഴവെള്ള സംഭരണ ടാങ്ക് എനിക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു പക്ഷേ ആദ്യത്തെ ചോദ്യം എന്നോട് വന്നു ഞാൻ അപകടത്തിലാണെങ്കിലും ശരി എന്റെ അപകടസാധ്യത കുറയ്ക്കാൻ ഈ മഴവെള്ള ടാങ്ക് എന്നെ സഹായിക്കുമോ ഈ സംവിധാനം ശരിക്കും നല്ലതല്ലെങ്കിൽ ഇത് ശരിയായി ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്റെ അർത്ഥമെന്താണെന്ന് നോക്കുന്നതിന്റെ അർത്ഥമെന്താണ് അതിനാൽ ഇത് നല്ലതാണോ അല്ലയോ എന്ന് ഞാൻ രണ്ടാമത് വിലയിരുത്തേണ്ടതുണ്ട് അതിനാൽ ഈ വ്യക്തി തന്റെ സുഹൃത്തിനെ വിളിച്ചേക്കാം അവന്റെ സുഹൃത്ത് പറയുന്നു ശരി ഈ ടാങ്ക് ശരിക്കും നല്ലതാണ് ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്തു ശരിയാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വളരെ നല്ല വാർത്ത അതിനാൽ അദ്ദേഹം മുന്നോട്ട് പോകും തന്റെ തീരുമാനവുമായി മുന്നോട്ട് പോകുക ഈ രണ്ടാമത്തെ വ്യക്തിക്ക് അദ്ദേഹത്തിന് കുറച്ച് ബന്ധുക്കളുണ്ട് എടുക്കരുത് നല്ലതല്ല എന്ന ഉപദേശവും അവർ നൽകി അങ്ങനെ അവനെ സ്വാധീനിച്ചു അവൻ പോയി ഞാൻ ഈ ടാങ്ക് ഇൻസ്റ്റാൾ ചെയ്യില്ല എനിക്ക് ഇത് ഇഷ്ടമല്ല ഈ വ്യക്തിക്ക് ചില സുഹൃത്തുക്കളും ഉണ്ടായിരിക്കാം അവൻ അവനെ വിളിച്ച് അവനുമായി ചർച്ച നടത്തി ശരി നിങ്ങളുടെ സ്ഥലത്തെ കുടിവെള്ള അപകടസാധ്യത കുറയ്ക്കാൻ ഈ ടാങ്ക് ശരിക്കും നല്ലതാണെന്ന് അവർ ഉപദേശിച്ചു അതുകൊണ്ട് ഈ വെള്ളം എടുത്താൽ വളരെ നല്ലതാണ് അതിനാൽ ഈ അവലോകനത്തിൽ അദ്ദേഹം വളരെ സംതൃപ്തനായി മുന്നോട്ട് പോകാൻ അദ്ദേഹം തീരുമാനിച്ചു ഈ ഘട്ടത്തെ നമ്മൾ എന്താണ് വിളിക്കുന്നത് ആദ്യത്തേത് റിസ്ക് അപ്രൈസൽ ആയിരുന്നു അടുത്തത് എന്താണ് ഇതിനെ നമ്മൾ റെസ്പോൺസ് എഫീക്കസി എന്ന് വിളിക്കുന്നു പ്രത്യേകിച്ച് ഫലപ്രതീക്ഷ ഞാൻ ആർക്കെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുകയാണെങ്കിൽ അതിൽ നിന്നുള്ള വരുമാനം എന്താണ് അത് പ്രവർത്തിക്കുമോ ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്താണ് ശരി ഇത് പ്രവർത്തിക്കുമോ ഇല്ലയോ മൂന്നാമത്തെ ചോദ്യങ്ങൾ മനസ്സിലുണ്ട് അതിനാൽ നിങ്ങൾ അപകടസാധ്യതയുള്ള സ്ഥലത്താണ് എന്ന് നിങ്ങൾ തീരുമാനിച്ചു ഈ മഴവെള്ള സംഭരണി ഫലപ്രദമാണ് എന്നാൽ മനസ്സിലെ മൂന്നാമത്തെ ചോദ്യം എന്തായിരിക്കും അത് വളരെ രസകരമാണ് അതിനാൽ ആളുകൾ ചിന്തിക്കുന്ന മൂന്നാമത്തെ ചോദ്യങ്ങൾ എന്താണെന്ന് ഒരു നിമിഷം ചിന്തിക്കുക ഞാൻ അപകടത്തിലാണ് ആരോ തീരുമാനിച്ചു ഈ മഴവെള്ള സംഭരണി നല്ലതാണെന്ന് പിന്നെ അതിനെ പറ്റി എന്ത് വിചാരിക്കും എനിക്ക് അത് ചെയ്യാൻ കഴിയുമോ എനിക്ക് അത് ചെയ്യാൻ കഴിയുമോ ഇത് പല കാരണങ്ങളാകാം ഇത് ചെലവിന്റെ ചോദ്യമാകാം ഇത് മെറ്റീരിയലുകളുടെ ലഭ്യതയുടെ ചോദ്യമാകാം എനിക്ക് ആവശ്യത്തിന് ഇടമുണ്ടോ ഇല്ലയോ എന്ന തരത്തിലുള്ള ചോദ്യമായിരിക്കാം അത് അതിനാൽ ഈ വ്യക്തി ബാങ്കിനോട് ചോദിച്ചു അവന്റെ പക്കൽ ആവശ്യത്തിന് പണമില്ല അതിനാൽ എനിക്ക് കുറച്ച് വായ്പ ലഭിക്കുമോ എന്ന് അദ്ദേഹം ബാങ്കിനോട് ചോദിച്ചു അതിനാൽ നിങ്ങൾക്ക് ഇതിനകം വായ്പയുണ്ടെന്ന് ബാങ്ക് പറയും അതിനാൽ നിങ്ങൾക്ക് ഇപ്പോൾ അധിക ക്രെഡിറ്റ് ലഭിക്കില്ല അങ്ങനെ അവൻ പോയി ഈ വ്യക്തിക്കും പണ പ്രശ്നമുണ്ട് അയാൾ ഭാര്യയെ വിളിച്ചു അവന്റെ ഭാര്യ പറഞ്ഞു നമുക്ക് കുറച്ച് സേവിംഗ്സ് എക്സ്ട്രാ സേവിംഗ്സ് ഉണ്ട് അതിനാൽ വിഷമിക്കേണ്ട നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും അതിനാൽ അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു കൂടാതെ ഈ പുതിയ ടാങ്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു ഇപ്പോൾ നമ്മൾ ഇതിനെ വിളിക്കുന്നത് ആദ്യം റിസ്ക് അപ്രൈസൽ പിന്നെ റെസ്പോൺസ് എഫീക്കസി ഈ ഘട്ടങ്ങളെയാണ് നമ്മൾ സെല്ഫ് എഫീക്കസി എന്ന് വിളിക്കുന്നത് ആത്മവിശ്വാസത്തിന്റെ കാരണം വ്യത്യസ്തമാകാം ചിലപ്പോൾ സാമ്പത്തിക കാരണങ്ങളാകാം ചിലപ്പോൾ സംഘടനാ പ്രശ്നമാകാം ശാരീരിക പ്രശ്നങ്ങൾ എന്റെ വീട്ടിൽ സ്ഥലമില്ലെങ്കിൽ എനിക്ക് അത് ചെയ്യാൻ കഴിയില്ല എനിക്ക് മെറ്റീരിയലുകൾ വാങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് അത് ചെയ്യാൻ കഴിയില്ല എനിക്ക് സാങ്കേതിക പരിജ്ഞാനമോ പിന്തുണയോ ഇല്ലെങ്കിൽ എനിക്ക് അത് ചെയ്യാൻ കഴിയില്ല അതിനാൽ എന്തോ ഞാൻ അപകടത്തിലാണ് എന്തെങ്കിലും പ്രവർത്തിക്കാൻ പോകുന്നു എനിക്ക് അത് ചെയ്യാൻ കഴിയും കോഗ്നിറ്റീവ് ഹ്യൂറിസ്റ്റിക് സമീപനം അനുസരിച്ച് വളരെ നിർണായകമാണ് പക്ഷേ ഇത് അവസാനമല്ല ഇത് അവസാനമല്ല മറ്റെന്താണ് മറ്റെന്താണ് വളരെ നിർണായകമായത് ലാസ്റ്റ് മൈൽ ആക്ഷൻ ഒരുപക്ഷേ അയാൾക്ക് പണം ലാഭിക്കാം എന്നിട്ടും അയാൾക്ക് കുറച്ച് ലോൺ ആവശ്യമാണ് ടാങ്ക് ശരിയായി ഇൻസ്റ്റാൾ ചെയ്യാൻ എനിക്ക് കുറച്ച് മൈക്രോക്രെഡിറ്റ് ലഭിക്കുമോ അതിനാൽ അദ്ദേഹം ചില മൈക്രോക്രെഡിറ്റ് ഏജൻസിയെ വിളിച്ചു അവർ പറഞ്ഞു ശരി അതെ നിങ്ങൾക്ക് കഴിയും എന്നിട്ട് അവൻ വളരെ സന്തോഷവാനായി ഈ ടാങ്കുമായി മുമ്പോട്ടുപോകാൻ തീരുമാനിച്ചു അങ്ങനെ ഒടുവിൽ കുടിവെള്ള ദുരന്തത്തിൽ നിന്ന് സ്വയം രക്ഷനേടാൻ അദ്ദേഹം ഈ മഴവെള്ള സംഭരണികൾ സ്ഥാപിച്ചു അതിനാൽ ഈ സിദ്ധാന്തങ്ങൾ പല വഴികളിൽ നിന്നാണ് വന്നത് സ്വാധീനമുള്ള മാതൃകാ സിദ്ധാന്തങ്ങളിലൊന്നാണ് പ്രൊട്ടക്ഷൻ മോട്ടിവേഷൻ തിയറി മസ്തിഷ്കത്തിലെ വിവിധ വിഷയങ്ങൾ വിവിധ സിദ്ധാന്തങ്ങൾ മാതൃകകൾ എന്നിവ എങ്ങനെ വിവരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഒരു ആശയം ലഭിക്കുന്നതിനായി ഞാൻ അവയെല്ലാം സംക്ഷിപ്തമായി ലളിതമാക്കി ശരി അവ പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു കൂടുതൽ വേരിയബിളുകൾ ഉണ്ട് പക്ഷേ അതായിരുന്നു സംക്ഷിപ്തമായ ഒന്ന് ഭയം ആളുകളെ അവരുടെ സ്വഭാവം മാറ്റാൻ പ്രേരിപ്പിക്കുന്നതെങ്ങനെയെന്നതിന് അടിവരയിടുന്ന നിർദ്ദിഷ്ട വൈജ്ഞാനിക പ്രക്രിയയെ നന്നായി മനസ്സിലാക്കാൻ ആശയവിനിമയ സിദ്ധാന്തത്തിൽ നിന്ന് വന്ന പിഎംടി മോഡൽ ഇതാണ് 1975 ൽ റോജേഴ്സ് ദി ആർ ഡബ്ല്യു റോജേഴ്സ് the R Rogers ആണ് ഇത് വികസിപ്പിക്കാൻ തുടങ്ങിയത് പിന്നീട് ഇത് റോജേഴ്സിന്റെ മറ്റ് സഹപ്രവർത്തകർ പരിഷ്ക്കരിച്ചു അതിനാൽ പ്രൊട്ടക്ഷൻ മോട്ടിവേഷൻ തിയറിയുടെ PMT യുടെ ഘടകം ഇതാ ഒന്ന് നിങ്ങൾ പുകവലിക്കുന്നതുപോലെ ചില തെറ്റായ പെരുമാറ്റം ശരിയാക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാലിന്യങ്ങൾ ഒരു ഓടയിലേക്ക് വലിച്ചെറിയുകയാണെങ്കിൽ ഇത് ശരിയാക്കുന്നതിന്റെ സ്വാധീനം എന്താണ് ഇത് ഒരു ഭീഷണി വിലയിരുത്തലും പ്രതികരണ ഫലപ്രാപ്തിയും സ്വയം സൃഷ്ടിക്കുന്നു സെല്ഫ് എഫീക്കസി ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ചില പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിന് ചിലത് ഇൻസ്റ്റാൾ ചെയ്യാൻ ശരിയാണ് ഒരു മഴവെള്ള സംഭരണ ടാങ്ക് വാങ്ങാനോ വെള്ളപ്പൊക്ക ഇൻഷുറൻസ് വാങ്ങാനോ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അതിന്റെ വിലയെന്താണ് അതിന്റെ റിട്ടേൺ എന്തായിരിക്കും നിങ്ങൾക്ക് ഈ ശേഷി ഉണ്ടോ ഇല്ലയോ സാമ്പത്തിക ശേഷി ശാരീരിക ശേഷി കുറഞ്ഞ ചെലവ് അഡാപ്റ്റീവ് പ്രതികരണങ്ങൾ ശരിയാണ് ഇത് യഥാർത്ഥത്തിൽ പ്രൊട്ടക്ഷൻ മോട്ടിവേഷൻ തിയറിയുടെ കോപ്പിംഗ് അപ്രൈസലാണ് അതിനാൽ ഭയപ്പെടുത്തുക തെറ്റായ പ്രതികരണത്തെക്കുറിച്ചുള്ള ഭയം ശരിയാണ് നിങ്ങൾ പുകവലിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ച് സന്തോഷവും തുടർന്ന് കാഠിന്യവും നൽകിയേക്കാം അത് നിങ്ങളെ കൂടുതൽ ദുർബലരാക്കും അല്ലെങ്കിൽ നിങ്ങൾ മാലിന്യം വലിച്ചെറിയുകയാണെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾക്ക് ആവശ്യമില്ല ദൂരെയുള്ള സ്ഥലത്തേക്ക് പോകാൻ നിങ്ങളുടെ വീടിനടുത്ത് തന്നെ ചെയ്യാം എന്നാൽ ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഡ്രെയിനിനെയും ഗട്ടറിനെയും ശ്വാസം മുട്ടിക്കുന്നു അതിനാൽ ഈ പ്ലസ് മൈനസ് യഥാർത്ഥത്തിൽ ഭീഷണി വിലയിരുത്തലിലേക്ക് വരുന്നു തുടർന്ന് അത് നിങ്ങളുടെ സംരക്ഷണ പ്രചോദനം വർദ്ധിപ്പിക്കുന്നു എന്നാൽ പുകവലിക്കോ തെറ്റായ പ്രതികരണത്തിനോ മാലിന്യം അഴുക്കുചാലിൽ വലിച്ചെറിയുന്നതിനോ ഉള്ള പ്രതിഫലം ഉയർന്നതായിരിക്കുമ്പോൾ അനന്തരഫലം കുറവായിരിക്കുമ്പോൾ അത് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നില്ല അതുപോലെ റെസ്പോൺസ് എഫീക്കസിയും പ്രതികരണം പോലെയുള്ള സെല്ഫ് എഫീക്കസിയും വ്യക്തിയെ ദോഷത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ പെരുമാറ്റം എത്രത്തോളം ഫലപ്രദമാകുമെന്നതിന്റെ വിലയിരുത്തലാണ് കൂടാതെ ശുപാർശ ചെയ്യുന്ന പെരുമാറ്റം നിർവഹിക്കാനുള്ള അവരുടെ കഴിവിന്റെ വ്യക്തിഗത വിലയിരുത്തലാണ് സെല്ഫ് എഫീക്കസി അതിനാൽ ഈ സാങ്കേതികവിദ്യകൾ ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടെന്നും എനിക്ക് അത് ചെയ്യാൻ കഴിയുമെന്നും ഞാൻ കണ്ടെത്തിയാൽ അത് വളരെ ഫലപ്രദമാണ് ഇതിന് ധാരാളം ഗുണങ്ങളുണ്ട് എനിക്ക് ഈ ആത്മവിശ്വാസവുമുണ്ട് സാമ്പത്തിക ചെലവുകളും മറ്റ് ചിലവുകളും എന്തൊക്കെയാണെന്ന് ഞാൻ പരിശോധിക്കുന്നു അതിനാൽ പ്ലസ്മൈനസ് എന്റെ കോപ്പിംഗ് മൂല്യനിർണ്ണയം തീരുമാനിക്കും കൂടാതെ ഞാൻ സംരക്ഷണ പ്രചോദനങ്ങൾക്കായി പോകുന്നു അതിനാൽ വിവിധ ആരോഗ്യ മേഖലകളിലും സമീപകാലത്ത് ദുരന്തസാധ്യതാ മാനേജ്മെന്റിലും ഇത് പ്രയോഗിച്ചു ആരോഗ്യ വിശ്വാസ മാതൃകകൾ പോലെയുള്ള മറ്റൊരു മോഡലും നമുക്കുണ്ട് അവയ്ക്ക് ഭീഷണി പോലെയുള്ള വിവിധ ഘടകങ്ങളുണ്ട് അവയ്ക്ക് രണ്ട് ഘടകങ്ങളുടെ തീവ്രതയും സംവേദനക്ഷമതയും ഉണ്ട് തുടർന്ന് പ്രവർത്തനങ്ങളുടെ സൂചനകളായ എന്തെങ്കിലും സ്വീകരിക്കുന്നതിന്റെ നേട്ടങ്ങളും തടസ്സങ്ങളും അത് ആരോഗ്യപരമായ പെരുമാറ്റത്തിലേക്ക് നയിക്കുന്നു അല്ലെങ്കിൽ 1975 ൽ ഫിഷ്ബെയ്നും അസ്ജെനും വികസിപ്പിച്ച യുക്തിസഹമായ പ്രവർത്തനങ്ങളുടെ സിദ്ധാന്തം ഞാൻ വിശ്വസിക്കുന്ന പെരുമാറ്റ വിശ്വാസങ്ങൾ എന്താണെന്നും ഭയത്തെക്കുറിച്ചും ഒരുതരം മനോഭാവത്തിലേക്ക് നയിക്കുന്ന സംരക്ഷണ പ്രചോദനത്തിന്റെ അനന്തരഫലങ്ങൾ എന്താണെന്നും പോലുള്ള സംരക്ഷണ പ്രചോദനങ്ങൾ പോലുള്ള സമാന കഥകളും അവർക്ക് ഉണ്ട് ഞാൻ അത് ചെയ്യണോ വേണ്ടയോ എന്ന് എന്നാൽ എന്റെ സമൂഹം ചിന്തിക്കുന്ന എന്റെ സുഹൃത്തുക്കൾ ശരിയാണെന്ന് മറ്റുള്ളവർ കരുതുന്ന കാര്യങ്ങളും ഇതിനെ സ്വാധീനിക്കുന്നു അതിനാൽ ഇപ്പോൾ മാനദണ്ഡമായ വിശ്വാസങ്ങളും അനുസരിക്കാനുള്ള പ്രേരണയും ആത്മനിഷ്ഠമായ മാനദണ്ഡങ്ങളും നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉദ്ദേശത്തിലേക്കും ഒടുവിൽ പെരുമാറ്റത്തിലേക്കും നയിക്കുന്നു ലക്ഷ്യബോധമുള്ള പെരുമാറ്റങ്ങളുടെ പ്രവചനം പ്രവചനങ്ങളുടെ സിദ്ധാന്തം എന്നിവയും നമുക്കുണ്ട് അതിനാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഡയഗ്രം ഇതാണ് അതിനാൽ എല്ലാം വിവരിക്കാതിരിക്കാനുള്ള ഒരു നോട്ടം മാത്രമാണിത് എന്നാൽ മഴവെള്ള സംഭരണ ടാങ്ക് സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ഈ കാർട്ടൂണിലൂടെ ഞാൻ കൂടുതൽ സമഗ്രമായ ഒരു അവലോകനം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് ദുരന്ത നിവാരണത്തിന്റെ വൈജ്ഞാനിക വീക്ഷണത്തിന്റെ മൊത്തത്തിലുള്ള ചിത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മികച്ച ആശയം നൽകുന്നു